ഒരു നിർദിഷ്ട ഉൽപ്പന്നത്തിന്റെ ഭൂമി ശാസ്ത്രപരമായ ഉത്ഭവവും ആ ഉത്ഭവം മൂലം കൈവന്ന ഗുണങ്ങളും പ്രശസ്തിയും സൂചിപ്പിക്കുന്ന ചിഹ്നമാണ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ അല്ലെങ്കിൽ ജി ഐ അതിനാൽ ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് ചരക്കുകൾ വരുമ്പോൾ അതിന്റെ ഗുണനിലവാരംആ പ്രത്യേക സ്ഥലംഅവിടുത്തെ ആളുകൾ അതിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രതേകത തുടങ്ങിയവയെ ആശ്രയിച്ചാണെങ്കിൽ ആ ഉൽപ്പന്നത്തെ ഒരു ഭൂമിശാസ്ത്രപരമായ സൂചന ആയി കണക്കാക്കാം അവ രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രത്യേക അവകാശമായിരിക്കും ഈ അവകാശത്തെ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ അല്ലെങ്കിൽ ജിഐ എന്ന് വിളിക്കുന്നു ഉദാഹരണത്തിന് റോക്ഫോർട്ട് ചീസ് ഡാർജിലിംഗ് ചായ ബനാറസ് സാരി എന്നിവ ജി ഐക്ക് വ്യത്യസ്ത ഉദാഹരണങ്ങളാണ് ഒരു ജിഐ കാർഷിക ഉൽപ്പന്നങ്ങളിൽ മാത്രം പരിമിതപ്പെടുന്നില്ല അത് വൈൻ പോലുള്ള പാനീയങ്ങളിലും കരകൌശല ഉൽപ്പന്നങ്ങളിലും ഉപയോഗിക്കപ്പെടുന്നു ഒരു ജിഐയുടെ സവിശേഷത എന്തെന്നാൽ അത് ഒരു ചിഹ്നത്തിലുടെ ഒരു ഉൽപ്പന്നം ഒരു നിർദിഷ്ട സ്ഥലത്തു നിന്ന് ഉത്ഭവിച്ചതായി തിരിച്ചറിയാൻ സഹായിക്കുന്നു എന്നതാണ് ആ ഉൽപ്പന്നത്തിന്റെ ഗുണവിശേഷതകളോ പ്രശസ്തിയോ അതിന്റെ ഉത്ഭവസ്ഥലത്തെ അടിസ്ഥാനപ്പെടുത്തി അയിരിക്കും ആ ഉൽപന്നവും അതിന്റെ യഥാർത്ഥ ഉത്പാദന സ്ഥലവും തമ്മിൽ വ്യക്തമായ ഒരു ബന്ധം ഉണ്ടായിരിക്കണം അപ്പോൾ നമുക്ക് എന്തിനാണ് ജിഐ ആവശ്യമായിരിക്കുന്നത് അറിവ് സംരക്ഷിക്കുന്നതിനാണ് അത് അറിവ് സംരക്ഷിക്കാനും ആ പ്രതേക സമൂഹത്തിന്റെ അവകാശങ്ങളുടെ സംരക്ഷണത്തിനുമുള്ള സൂചനയാണത് അതിനാൽ ഒരു ന്യായമായ മത്സരം ഉണ്ടാകും ഉദാഹരണത്തിന് ഡാർജിലിംഗ് ചായ ഡാർജിലിംഗ് ചായയായി മാത്രമേ വിൽക്കാവൂ നമ്മൾ അത് അസം ചായയായോ മറ്റേതെങ്കിലും ചായയായോ വിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അത് ഒരു പ്രതേക പ്രദേശത്തുനിന്നുള്ളവരല്ലാത്തവർ ഈ ഉൽപനത്തെ തങ്ങളുടേതായി കൈമാറാൻ ഇടയാക്കും ഇത് ന്യായമായ മത്സരത്തെയും ബാധിക്കും ട്രേഡ്മാർക്സ് പോലെ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ഒരു ഉല്പന്നത്തിന്റെ ഗുണനിലവാരം തിരിച്ചറിയാൻ വ്യക്തികളെ സഹായിക്കുന്നു ഉൽപ്പന്നം ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് ഉത്ഭവിച്ചതാണെന്ന് മാർക്കറ്റ് തിരിച്ചറിയുന്നു ഉൽപ്പന്നത്തിനായി പ്രീമിയം വില നൽകാൻ ആളുകൾ തയ്യാറായേക്കാം ഇത് നിഷ് മാർക്കറ്റിങ്ങിലേക്കും ഗ്രാമവികസനത്തിലേക്കും നയിക്കുന്നു കാരണം ഗ്രാമീണ മേഖലയിലെ ജി ഐ പരിരക്ഷയുള്ള കരകൌശല വിദഗ്ധർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ കഴിയും കാരണം അതിന് ജി ഐ പരിരക്ഷണം ഉള്ളത് കൊണ്ടാണ് ഇന്ത്യയിൽ ജി ഐ 1999 ലെ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ഓഫ് ഗുഡ്സ് റെജിസ്ട്രേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ടിനാൽ പരിരക്ഷിക്കപ്പെടുന്നു രജിസ്റ്റർ ചെയ്തുകഴിഞ്ഞാൽ ജിഐക്ക് 10 വർഷത്തെ പരിരക്ഷ ലഭിക്കുന്നു അത് ട്രേഡ്മാർക്സ് പോലെ കാലാകാലങ്ങളിൽ പുതുക്കാവുന്നതാണ് ജിഐ രജിസ്ട്രി ചെന്നൈയിലാണ് രജിസ്റ്റർ ചെയ്ത ജി ഐകളിൽ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള കാർഷിക ഉൽപന്നമായ ഡാർജിലിംഗ് ചായ കേരളത്തിൽ നിന്നുള്ള കരകൌശല ഉൽപന്നമായ ആറന്മുള കണ്ണാടി നിർമ്മിത ഉൽപ്പന്നമായ മൈസൂർ അഗർബതി തമിഴ്നാട്ടിൽ നിന്ന് നിർമ്മിച്ച ഉൽപന്നമായ കോയമ്പത്തൂർ വെറ്റ് ഗ്രൈൻഡർ ആസാമിലെ മുഗാ സിൽക്ക് ഒഡീഷയിൽ നിന്നുള്ള തുണി ഉൽപന്നമായ ഒറീസ പട്ടചിത്ര പശ്ചിമ ബംഗാളിന്റെ ഭക്ഷ്യവസ്തുവായ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബാംഗ്ലർ രസഗുള എന്ന ബംഗാളി രസഗുള എന്നിവ ഉൾപ്പെടുന്നു രസഗുളയുടെ ഉത്ഭവം സംബന്ധിച്ച് പശ്ചിമ ബംഗാളും ഒഡീഷയും തമ്മിൽ അടുത്തിടെ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു ബംഗാൾ രസഗുള അല്ലെങ്കിൽ ബംഗാളി രസഗുള അനുവദിക്കുന്നത് ഒഡീഷയ്ക്ക് സമാനമായ അവകാശമുണ്ടെന്നത് തടയുന്നില്ലെന്നും ഈ സർട്ടിഫിക്കറ്റിനെ ഈ മധുരപദാർത്തിന്റെ ഉത്ഭവത്തിന്റെ മാത്രം സർട്ടിഫിക്കറ്റായി കണക്കാക്കരുതെന്നും രജിസ്ട്രി അഭിപ്രായപ്പെടുന്നു